ഇതിനു മുൻപത്തെ ക്ലാസ്സിൽ ഞാൻ പോസിറ്റീവ് X ദിശയിലേക്കും നെഗറ്റീവ് X ദിശയിലേക്കും സഞ്ചരിക്കുന്ന വേവ്സ് അഥവാ തരംഗങ്ങളെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ വിശദീകരിച്ചു അതായത് രണ്ടു തരത്തിലുള്ള തരംഗങ്ങളെയും സൂചിപ്പിക്കുന്ന ഈ ഇക്വേഷന്റെ സെക്കന്റ് ഡെറിവേറ്റീവ് എടുത്ത് എന്ന വേവ് ഇക്വേഷൻ ലഭിച്ചു ഇതിന്റെ പൊതുവായ സൊല്യൂഷൻ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ദിശയിലേക്കു സഞ്ചരിക്കുന്ന ഒരു വേവിനെ അല്ലെങ്കിൽ ഇത്തരം രണ്ടു തരത്തിലുമുള്ള വേവിന്റെ ലീനിയർ കോംബിനേഷനെ സൂചിപ്പിക്കുന്നു എന്നും നാം പറഞ്ഞു ഈ സെക്കന്റ് ഓർഡർ ഡിഫറെൻഷ്യൽ ഇക്വേഷന്റെ പൊതുവായുള്ള സൊല്യൂഷൻ എന്നത് f യും മറ്റൊരു ഫങ്ക്ഷൻ g x v t യും ചേർത്ത് എഴുതാവുന്നതാണ് അതായത് ഇതിനെ വേണമെങ്കിൽ എന്നും എഴുതാം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കാനുള്ളത് fx vtgxvt എന്ന കോമ്പിനേഷൻ ഒരിക്കലും ∂f∂x±1v∂f∂t എന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ ആവില്ല എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ fx vt അല്ലെങ്കിൽ fx vt അല്ലെങ്കിൽ ft xv അല്ലെങ്കിൽ ftxv മാത്രമാണ് അപ്പോൾ ഇവ തമ്മിൽ ചേർത്ത് കിട്ടുന്ന കോമ്പിനേഷൻ പോസിറ്റീവ് ദിശയിലേക്കും നെഗറ്റീവ് ദിശയിലേക്കും സഞ്ചരിക്കുന്ന തരംഗങ്ങളെ സൂചിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള തരംഗങ്ങൾ ചേർന്നാണ് സ്റ്റേഷനറി വേവ്സ് അഥവാ സ്ഥിര തരംഗങ്ങൾ അല്ലെങ്കിൽ നിശ്ചല തരംഗങ്ങൾ ഉണ്ടാവുന്നത് ഇത് ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം പോസിറ്റീവ് X ദിശയിലേയ്ക്കു സഞ്ചരിക്കുന്ന ആംപ്ലിട്യൂഡ് A ആയുള്ള സൈനുസോയിഡൽ വേവ് എന്നിരിക്കട്ടെ ഇതിനെ നമുക്ക് y1 xt എന്നെടുക്കാം അതായത് ഇതേ ആംപ്ലിട്യൂഡ് ഉള്ള എന്നാൽ നെഗറ്റീവ് X ദിശയിലേയ്ക്കു സഞ്ചരിക്കുന്ന മറ്റൊരു തരംഗം ആണ് y2 xt നമുക്ക് ഇതിനെ എന്നെടുക്കാം അപ്പോൾ നമുക്കിവിടെ വിപരീത ദിശകളിൽ സഞ്ചരിക്കുന്ന ഒരേ ആംപ്ലിട്യൂഡ് ഉള്ള രണ്ടു തരംഗങ്ങൾ ഉണ്ട് ഈ രണ്ടു തരംഗങ്ങളും ഒരേ ചരടിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് ഏതെങ്കിലും ഒരു ബിന്ദുവിലുള്ള റിസൽറ്റന്റ് ഡിസ്പ്ലേസ്മെന്റ് അഥവാ പരിണത സ്ഥാനാന്തരം yxt എന്നത് y1 y2 ഇവയുടെ ആകെത്തുകയാണ് അതായത് ഇതിൽ sin ωt വരുന്ന പദങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നു അപ്പോൾ റിസൽറ്റന്റ് ഡിസ്പ്ലേസ്മെന്റ് ഈ ഇക്വേഷൻ ശ്രദ്ധിക്കൂ ഇതിൽ നിന്നും എന്താണ് മനസിലാകുന്നത് ഇവിടെ 2A എന്ന ആംപ്ലിട്യൂഡിന് പകരം A എന്ന് എടുക്കാം അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് yxt ASinkxCosωt എന്ന് ലഭിക്കും ഇവിടെ ഉയർന്നു വരുന്ന സംശയം ഇത് ഒരു ട്രാവെല്ലിങ് വേവ് ഇക്വേഷൻ ആണോ എന്നതാണ് അല്ല കാരണം ട്രാവെല്ലിങ് വേവിന്റെ ഫങ്ക്ഷൻ fx vt അല്ലെങ്കിൽ fxvt എന്ന രീതിയിലാണ് വരേണ്ടത് x t ഇവ ഈ കോമ്പിനേഷനിലാണ് വരേണ്ടത് അപ്പോൾ ഈ ഇക്വേഷൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതറിയാനായി നമുക്ക് ഇത് ഒരു ഗ്രാഫിൽ വരച്ചു നോക്കാം t 0 ആകുമ്പോൾ cos⍵t cos 0 1 ആകുന്നു അപ്പോൾ ഇത് ഒരു സൈൻ ഫങ്ക്ഷൻ ആയി മാറുന്നു ടൈം കൂടി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ ഇവിടെ ഓരോ ബിന്ദുവും മുകളിലോട്ടും താഴോട്ടും ⍵ ഫ്രീക്വൻസി യിൽ ഓസിലേറ്റ് ചെയ്യുന്നു അപ്പോൾ ചരടിലെ ഓരോ ബിന്ദുവും രണ്ടു നിശ്ചിത ബിന്ദുക്കൾക്കിടയിൽ മുകളിലേക്കും താഴേക്കും ⍵ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്നു ഇവിടെ വിക്ഷോഭം അഥവാ ഡിസ്റ്റർബൻസ് ഇടത്തോട്ടേക്കോ വലത്തോട്ടേക്കോ സഞ്ചരിക്കുന്നില്ല ഞാനിവിടെ ഒരു നീണ്ട ചരട് എടുത്ത് രണ്ടറ്റവും ദൃഢമായ രണ്ട് അതിരുകൾക്കിടയിൽ വലിച്ച് കെട്ടുന്നു എന്നിട്ട് മുകളിലേക്കോ താഴേക്കോ ചരടിന് ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുക അപ്പോൾ ഇത് മുകളിലേക്കും താഴേക്കും കമ്പനം ചെയ്യുന്നതായി കാണാം എന്നാൽ ഈ വേവ് ഒരു ബിന്ദുവിൽ നിന്നും ഇടത്തോട്ടേക്കോ വലത്തോട്ടേക്കോ നീങ്ങുന്നില്ല അതുകൊണ്ടുതന്നെ ഇവയെ നിശ്ചല തരംഗങ്ങൾ അഥവാ സ്റ്റേഷനറി വേവ്സ് അല്ലെങ്കിൽ സ്ഥിര തരംഗങ്ങൾ അഥവാ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് വിളിക്കുന്നു നിങ്ങൾ ഇതേകുറിച്ച് 12th ഗ്രേഡിൽ പഠിച്ചിരിക്കുമല്ലോ അപ്പോൾ സ്റ്റാൻഡിങ് വേവ്സ് x ന്റെ ഫങ്ക്ഷൻ ✕ t യുടെ ഫങ്ക്ഷൻ എന്ന രീതിയിൽ എഴുതാവുന്നതാണ് അതായത് ഇത് രണ്ടും രണ്ടു ഫങ്ക്ഷൻ ആയി തന്നെയാണ് ഉണ്ടാവുന്നത് അല്ലാതെ x vt അല്ലെങ്കിൽ xvtഎന്നിങ്ങനെ കോമ്പിനേഷൻ ആയല്ല ഓരോ ബിന്ദുവും ഇടത്തോട്ടേക്കോ വലത്തോട്ടേക്കോ സ്ഥാനാന്തരം സംഭവിക്കാതെ അതാത് സ്ഥാനങ്ങളിൽ നിന്നും ഓസിലേറ്റ് ചെയ്യുന്നു അഥവാ പീരിയോഡിക് ചലനത്തിലേർപ്പെടുന്നു ഇത്രയുമാണ് സ്റ്റാൻഡിങ് വേവിന്റെ പ്രത്യേകത നമുക്കിനി നേരത്തെ ലഭിച്ച വേവ് ഇക്വേഷൻ നോക്കാം ഇതനുസരിച്ച് ഇതിനു 3 രീതിയിലുള്ള സൊല്യൂഷൻ ആവാം പോസിറ്റീവ് ദിശയിലേക്കു സഞ്ചരിക്കുന്ന വേവ് നെഗറ്റീവ് ദിശയിലേക്കു സഞ്ചരിക്കുന്ന വേവ് സ്റ്റേഷനറി വേവ് ഇവിടെ ഓരോ ബിന്ദുവും ഒരു നിശ്ചിത സ്ഥാനം ആധാരമാക്കി ഓസിലേറ്റ് ചെയ്യുന്നു നമുക്ക് സ്റ്റേഷനറി വേവ് കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാം ഇതിനോടൊപ്പം ഐഗൻ ഫങ്ക്ഷൻ ഐഗൻ ഫ്രീക്വൻസി ഇവ കൂടി നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാം ഐഗൻ എന്ന ജർമൻ വാക്കിന്റെ അർഥം യുക്തമായത് അഥവാ സമുചിതമായത് എന്നാണ് അപ്പോൾ നമുക്ക് ഈ ആശയം കൂടി ഇവിടെ കൊണ്ടുവരാം വേവ് ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം

ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ഇവിടെ X എന്നത് ഡിസ്പ്ലേസ്മെന്റ് x ന്റെ മാത്രം ഫങ്ക്ഷനും T എന്നത് ടൈം t യുടെ മാത്രം ഫങ്ക്ഷനും ആണ് ഇത് ഒരു സ്റ്റേഷനറി വേവ് ആണ് ട്രാവെല്ലിങ് വേവ് അല്ല കാരണം ഇവിടെ x vt അല്ലെങ്കിൽ xvtഎന്നിങ്ങനെ കോമ്പിനേഷൻ ആയല്ല വന്നിട്ടുള്ളത് ഇവിടെ T എന്നത് പീരിയോഡിക് അല്ലെങ്കിൽ ഹാർമോണിക് ആവാൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ശുദ്ധമാവാൻ അതായത് ഒരൊറ്റ ഫ്രീക്വൻസി മാത്രമാവണമെങ്കിൽ ഫങ്ക്ഷൻ T sinωt അല്ലെങ്കിൽ cosωt അല്ലെങ്കിൽ ഇത് രണ്ടും വരുന്ന വിധത്തിൽ അതായത് sin⁡ωtϕആകണം കോംപ്ലക്സ് നമ്പർ ശൈലിയിൽ വേണമെങ്കിൽ ഇതിനെ എക്സ്പൊനെൻഷ്യൽ ഉപയോഗിച്ചും എഴുതാം അതായത് ഇവയെല്ലാം തന്നെ ഒരൊറ്റ ഫ്രീക്വൻസി ω യിലുള്ളതാണ് ഇവയിലെല്ലാം തന്നെ സെക്കന്റ് ഡെറിവേറ്റീവ് എടുത്താൽ അതായത് d2Tdt2 ω2T ആയിരിക്കും ഇത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഫ്രീക്വൻസി ω ആയുള്ള സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ടൈമിനെ അപേക്ഷിച്ച് സെക്കന്റ് ഡെറിവേറ്റീവ് എടുത്താൽ ω2x ലഭിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ വേവ് ഇക്വേഷൻ എന്നത് എന്നാകുന്നു ഇതിൽ d2Tdt2 ω2T എന്ന് സബ്സ്റ്റിട്യൂട് ചെയ്താൽ അപ്പോൾ ഇവിടെ ഒരൊറ്റ ഫ്രീക്വൻസിയിലുള്ള സ്റ്റേഷനറി വേവിന്റെ ഇക്വേഷൻ എന്ന് കിട്ടി ഇതിൽ T ക്യാൻസൽ ചെയ്ത് ωv k 2π അതായത് വേവ് നമ്പർ എന്നെടുത്താൽ ഇതാണ് സ്റ്റേഷനറി വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് x ന്റെ ഫങ്ക്ഷൻ ആയി ലഭിക്കുന്ന ഇക്വേഷൻ ഇതിന്റെ ടൈമുമായുള്ള ബന്ധം sin⁡ωtϕ അല്ലെങ്കിൽ eiωt എന്ന കോംപ്ലക്സ് ക്വാണ്ടിറ്റി ഉപയോഗിച്ചോ സൂചിപ്പിക്കാം അപ്പോൾ ഇതെല്ലം ചേർത്ത് സ്റ്റേഷനറി വേവിന്റെ സൊല്യൂഷൻ Xeiωt എന്നെടുക്കാം ഇതിൽ നിന്നും ഡിസ്പ്ലേസ്മെന്റ് ലഭിക്കുമോ എന്ന് നോക്കാം സ്റ്റേഷനറി വേവ് ഇക്വേഷൻ എന്നാണല്ലോ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഡിഫെറെൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ തീരുമാനിക്കുന്നത് ബൌണ്ടറി കണ്ടീഷൻ ആണ് ഇതെങ്ങനെയെന്നു ഞാൻ വിശദീകരിക്കാം ഇവിടെ d2Xdx2k2X0 എന്നത് വളരെ ലളിതമായ ഇക്വേഷനാണ് ഇതിന്റെ സൊല്യൂഷൻ X AsinkxBcoskx എന്നാണ് ഇവിടെ Aയും Bയും കണ്ടുപിടിക്കേണ്ട കോൺസ്റ്റന്റുകളാണ് അപ്പോൾ Aയും Bയും ലഭിക്കാതെ സൊല്യൂഷൻ കിട്ടില്ല Aയും Bയും കിട്ടാനായി ബൌണ്ടറി കണ്ടീഷൻ അറിയേണ്ടതുണ്ട് അതായത് ബൌണ്ടറി കണ്ടീഷൻ ആണ് Aയും Bയും ഉറപ്പിക്കുന്നത് അപ്പോൾ ബൌണ്ടറി കണ്ടീഷൻ തീരുമാനിച്ചാൽ Aയും Bയും ഉറപ്പിക്കാം ഇതാണ് ഒന്നാമത്തെ പോയിന്റ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബൌണ്ടറി കണ്ടീഷൻ ഇല്ലാതെ സൊല്യൂഷൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അത്തരം കോൺസ്റ്റന്റിനെ ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറയുന്നു അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് സൊല്യൂഷൻ തീരുമാനിക്കുന്നത് ബൌണ്ടറി കണ്ടീഷനുകളാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ബൌണ്ടറി കണ്ടിഷൻ അനുസരിച്ചു എല്ലാ k വാല്യൂവിനും സൊല്യൂഷൻ ലഭിക്കുമോ ഇല്ല എന്നാണ് ഇതിനുത്തരം ചില k വാല്യൂവിനു മാത്രമേ സൊല്യൂഷൻ ലഭിക്കാൻ സാധ്യതയുള്ളൂ ഇതിനർത്ഥം എന്താണ് കൃത്യമായ സൊല്യൂഷൻ ചില k വാല്യൂവിനു മാത്രമേ ലഭിക്കുന്നുള്ളൂ മറ്റു k വാല്യൂവിനു ബൌണ്ടറി കണ്ടീഷൻ ശരിയായി വരുന്നില്ല അതുകൊണ്ടുതന്നെ Aയും Bയും ഉറപ്പിക്കാൻ പറ്റില്ല ഇത്തരം k വാല്യൂവിനെ യുക്തമായ വാല്യൂ എന്നർത്ഥത്തിൽ ഐഗൻ വാല്യൂ എന്നും ഫ്രീക്വൻസിയെ ഐഗൻ ഫ്രീക്വൻസി എന്നും ഇക്വേഷന്റെ സൊല്യൂഷനെ ഐഗൻ ഫങ്ക്ഷൻ എന്നും പറയുന്നു അടുത്തതായി നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സംഗ്രഹിക്കാം 2fx2 1v22ft20 എന്ന സെക്കന്റ് ഓർഡർ ഡിഫറെൻഷ്യൽ ഇക്വേഷനിൽ നിന്നും സ്റ്റേഷനറി വേവ്സിന്റെ സൊല്യൂഷൻ ലഭിക്കുന്നു അതായത് fxt X T ഇവിടെ X എന്നത് x ന്റെ മാത്രം ഫങ്ക്ഷനും T എന്നത് t യുടെ മാത്രം ഫങ്ക്ഷനും ആണ് ഒരൊറ്റ ഫ്രീക്വൻസി ആയുള്ള സൊല്യൂഷനിൽ T എന്നത് സൈൻ കൊസൈൻ ഫങ്ക്ഷനുകൾ അടങ്ങിയ eiωt എന്ന ഫങ്ക്ഷൻ ഉപയോഗിച്ച് എഴുതാവുന്നതാണ് അപ്പോൾ ഇക്വേഷൻ d2Xdx2k2X0 എന്ന രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു ഈ ഇക്വേഷൻ ചില നിശ്ചിത k വാല്യൂകൾക്ക് തന്നിരിക്കുന്ന ബൌണ്ടറി കണ്ടിഷനുകൾ അനുസരിക്കുന്നു ഇത്തരം k വാല്യൂവിനെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നു ഉദാഹരണമായി ഞാൻ ഒരു രണ്ടറ്റവും വലിച്ചു കെട്ടിയ ചരട് സങ്കൽപ്പിക്കാം രണ്ടറ്റവും വലിച്ചു കെട്ടിയ ഈ ചരടിന്റെ ടെൻഷൻ T യൂണിറ്റ് ലെങ്ങ്തിന്റെ മാസ്സ് അഥവാ മാസ്സ് പെർ യൂണിറ്റ് ലെങ്ത് 𝜇 എന്നിരിക്കട്ടെ അപ്പോൾ വേവിന്റെ സ്പീഡ് ഈ ഭാഗം നിങ്ങൾ 12th ഗ്രേഡിൽ പഠിച്ചു കഴിഞ്ഞതായതുകൊണ്ടു ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല ഈ ചരടിൽ സ്റ്റേഷനറി വേവ് ഉണ്ടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ 12th ൽ പഠിച്ചിരുന്നു സ്റ്റേഷനറി വേവ് ചരടിനെ മുകളിലേക്കും താഴേക്കും ഓസിലേറ്റ് ചെയ്യിപ്പിക്കുമെന്ന് ഞാനിവിടെ എഴുതിയ വേവ് ഇക്വേഷനിലൂടെ ഇതെങ്ങനെ വിശദീകരിക്കാമെന്നു നോക്കാം വേവ് ഇക്വേഷൻ d2Xdx2k 2X0 ആണല്ലോ ഇതിൽ നിന്നും നമുക്ക് x A sin k x B cos k x എന്ന് ലഭിക്കുന്നു ഇവിടെ ബൌണ്ടറി കണ്ടീഷനുകൾ എന്തൊക്കെയാണ് L എന്നത് ചരടിന്റെ നീളം ചരടിന്റെ ഇടത്തെ അറ്റം x 0 വലത്തേ അറ്റം x L ആണ് ഈ ബൌണ്ടറി കണ്ടീഷൻ സൊല്യൂഷനിൽ സബ്സ്റ്റിട്യൂട് ചെയ്യാം x 0 ആകുമ്പോൾ അതായത് B 0 എന്നർത്ഥം അപ്പോൾ രണ്ടറ്റവും വലിച്ചു കെട്ടിയിരിക്കുന്ന L നീളത്തിലുള്ള ചരടിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റാന്റിംഗ് വേവിന്റെ സൊല്യൂഷൻ ഇത് x 0 എന്ന ബൌണ്ടറി കണ്ടീഷൻ അനുസരിച്ചുള്ള സൊല്യൂഷൻ ആണ് ഇവിടെ ഇത് പൂർണ്ണമാകുന്നില്ല x 0 ആകുമ്പോൾ X 0 എന്ന ആശയം ഉപയോഗിച്ചാണ് ഇത് കിട്ടിയത് അടുത്തതായി നമ്മൾ രണ്ടാമത്തെ ബൌണ്ടറി കണ്ടീഷൻ പ്രയോഗിക്കാം ഇതനുസരിച്ച് Xx L 0 ആണല്ലോ ഇത് വേവ് ഇക്വേഷനിൽ പ്രയോഗിച്ചാൽ A യുടെ വാല്യൂ എന്തായാലും പ്രശ്നമില്ല എന്നാൽ kL n അല്ലെങ്കിൽ knnπL ആകുമ്പോൾ മാത്രമാണ് മുകളിലത്തെ ഇക്വേഷൻ ശരിയാകുന്നത് ഇവിടെ n 0 1 2 3 അതായത് ചില നിശ്ചിത k വാല്യൂകൾക്ക് മാത്രമാണ് വേവ് ബൌണ്ടറി കണ്ടിഷനുകൾ അനുസരിച്ച് വർത്തിക്കുന്നുള്ളൂ ഇത്തരം k വാല്യൂവിനെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നു ഇതിനനുബന്ധമായുള്ള ഐഗൻ ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കാം നമുക്കറിയാം k v ആണെന്ന് അപ്പോൾ k v അപ്പോൾ ഇതിനെ നിങ്ങൾ 12th ഗ്രേഡിൽ പഠിച്ചതുമായി ബന്ധപ്പെടുത്തി നോക്കാം നിങ്ങൾക്കറിയാം ഇതിൽനിന്നും ഇത് നിങ്ങൾക്കറിയാവുന്നതാണ് ഇതിനനുബന്ധമായുള്ള ഐഗൻ ഫ്രീക്വൻസി nഎന്നെടുത്താൽ എന്നും ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റേഷനറി സ്റ്റേറ്റ് സൊല്യൂഷൻ കാണുമ്പോൾ ഒരൊറ്റ ഫ്രീക്വൻസിക്ക് മാത്രമല്ല പല ഫ്രീക്വൻസിയ്ക്കും അനുബന്ധമായി സൊല്യൂഷൻ ലഭിക്കും എന്നാൽ ഏതു ഫ്രീക്വൻസിയ്ക്കും ഇത് ശരിയാവണമെന്നില്ല ചില പ്രത്യേക ഫ്രീക്വൻസിയ്ക്കു മാത്രമായി ഓസിലേഷൻ പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇത്തരം ഫ്രീക്വൻസിയെ ഐഗൻ ഫ്രീക്വൻസി എന്നും ഇതിന് അനുബന്ധമായുള്ള സൊല്യൂഷൻ X A sinknx നെ ഐഗൻ ഫങ്ക്ഷൻ എന്നും വിളിക്കുന്നു തുറന്ന ഓർഗൻ പൈപ്പിനും ഇതേ രീതിയിൽ സൊല്യൂഷൻ കാണാവുന്നതാണ് ഇവിടെ രണ്ടു ഓർഗൻ പൈപ്പുകൾ എടുക്കാം ഒന്ന് ഒരഗ്രം തുറന്നതും മറ്റേത് രണ്ടഗ്രവും തുറന്നതും നിങ്ങളിത് 12th ഗ്രേഡിൽ പഠിച്ചതാണ് ഇതുമായി ബന്ധപ്പെടുത്തി ഐഗൻ ഫ്രീക്വൻസി കാണാൻ ശ്രമിക്കാം ഇതാണ് രണ്ടറ്റവും തുറന്ന പൈപ്പ് ഇത് ഒരറ്റം തുറന്ന പൈപ്പ് ഇത് രണ്ടിന്റെയും ബൌണ്ടറി കണ്ടീഷൻ സ്റ്റേഷനറി വേവിന്റെ സൊല്യൂഷനിൽ പ്രയോഗിച്ച് നിങ്ങൾ നേരത്തെ പഠിച്ച ഇക്വേഷനുകളുമായി ബന്ധപ്പെടുത്തി നോക്കൂ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഐഗൻ ഫ്രീക്വൻസി കണ്ട് നിങ്ങൾ 12th ഗ്രേഡിൽ പഠിച്ച കാര്യങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്തി നോക്കൂ അടുത്തതായി ഒരു ചോദ്യമാണ് ഞാനിവിടെ എടുത്തിരുന്ന ഉദാഹരണം ചരടിൽ കൂടിയുള്ള സ്റ്റേഷനറി വേവ്സ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചു തന്നെ ചോദിക്കാം ചോദ്യം ഇതാണ് ഇവിടെ ഐഗൻ ഫ്രീക്വൻസിയും അതിനോട് ബന്ധപ്പെട്ട ഐഗൻ ഫങ്ക്ഷനും ഉണ്ട് എന്നതിനർത്ഥം ഈ ചരടിന് ഒരേ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആകാരത്തിൽ മാത്രമേ കമ്പനം ചെയ്യാൻ അഥവാ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റൂ എന്നാണോ ഇതിനുത്തരം അല്ല ഇതിന് മറ്റു രീതിയിലും വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഉദാഹരണമായി നമുക്ക് ഈ ചരട് തന്നെയെടുക്കാം ഞാനിതിനെ മധ്യഭാഗത്ത് പിടിച്ച് ഉയർത്തി ഏകദേശം ത്രികോണാകൃതിയിലാക്കി താഴേക്ക് വിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നെന്നു കരുതുക ഇപ്പോഴും നേരത്തെ പറഞ്ഞ ബൌണ്ടറി കണ്ടീഷനുകൾ അതായത് yx 0 0 yxL 0 ഇവിടെ പ്രയോഗികമാണ് ഇങ്ങനെ ത്രികോണരൂപത്തിൽ പിടിച്ചുയർത്തി വിടുമ്പോൾ ഇതിൽ കമ്പനങ്ങൾ ഉണ്ടാകുന്നു ഇതെങ്ങനെയാണ് അപഗ്രഥനം ചെയ്യുന്നത് നേരത്തെ ഫ്യൂരിയർ എക്സ്പാൻഷൻ ചെയ്തതുപോലെ നമുക്ക് ചരടിന്റെ ഏതു തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റും പൊതുവായി ഐഗൻ ഫങ്ക്ഷൻ ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യാം ത്രികോണാകൃതിയോ മറ്റേതെങ്കിലും ആകൃതിയോ ആയാലും ഇതിന്റെ ഫങ്ക്ഷൻ f നമുക്ക് എന്ന രൂപത്തിൽ പ്രതിനിധാനം ചെയ്യാം ഇവിടെ sin nπLx എന്നത് ഐഗൻ ഫങ്ക്ഷൻ ആണെന്ന് നേരത്തെ കണ്ടിരുന്നല്ലോ അപ്പോൾ ഇവിടെ ടൈമിനനുസരിച്ചുള്ള വ്യതിയാനം കാണിക്കുന്ന ഫങ്ക്ഷൻ ആണ് sin ωnt അപ്പോൾ പൊതുവായി അടിസ്ഥാന ഫ്രീക്വൻസിയുടെ എല്ലാ കോമ്പിനേഷനും ടൈമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഇതിനു ഏതു ആകൃതിയിലും അഥവാ മോഡ് ലും ഈ ഇക്വേഷൻ പ്രകാരം വൈബ്രേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റേഷനറി വേവ്സുമായി ബന്ധപ്പെടുത്തി ഐഗൻ ഫങ്ക്ഷൻ ഐഗൻ ഫ്രീക്വൻസി ഐഗൻ വാല്യൂ തുടങ്ങിയ ആശയം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇത് പിന്നീട് ഷ്രോടിൻജർ ഇക്വേഷന്റെ സ്റ്റെഡി സ്റ്റേറ്റ് സൊല്യൂഷൻ വിശദീകരിക്കാൻ ഉപകാരപ്പെടും